ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള ഈ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലെ പ്രഭാഷണം 7 ലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഒരു പ്രാക്ടീസ് പ്രോബ്ലെത്തിനുള്ള പരിഹാരം നമ്മൾ പരിശോധിച്ചു പ്രാക്ടീസ് പ്രോബ്ലം 2 അതിനാൽ അതിനുശേഷം മെറ്റീരിയലുമായി തുടരാം ഒരു എൻസൈം പ്രതികരണത്തിനായി നമ്മൾ മൈക്കിളിസ് മെന്റൻ കയ്നെറ്റിക്സ് നോക്കിയിരുന്നു അവിടെ ഉള്ള പ്രക്രിയ എൻസൈമും അതുപോലെ സബ്സ്ട്രേറ്റ്ഉം ആണ് അതു നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് തരുന്നു തീർച്ചയായും ഇത് വളരെ ലളിതമായ ഒരു സംവിധാനമാണ് പ്രതീക്ഷിച്ചതുപോലെ എൻസൈമാറ്റിക് പ്രതിപ്രവർത്തനങ്ങൾക്ക് മറ്റ് പല തരത്തിലുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട് അവയിൽ ചിലത് ഈ മൈക്കിളിസ് മെന്റൻ കയ്നെറ്റിക്സിലെ വ്യതിയാനങ്ങളായി നമ്മൾ നോക്കും അതുവഴി ഒരു നിശ്ചിത ചട്ടക്കൂടിൽ ഉൾപ്പെടുത്താനും ഉചിതമായ പാരാമീറ്ററുകൾ നേടാനും മറ്റും നമുക്ക് എളുപ്പമാകും അതിനാൽ ഒരൊറ്റ എൻസൈമിനൊപ്പം മറ്റ് കയ്നെറ്റിക്സിലേക്ക് നോക്കാം ഒരൊറ്റ സബ്സ്ട്രേറ്റ് തരം എന്ന് നമുക്ക് പറയാം അതിന്റെ ഒപ്പം ചില ഇൻഹിബിറ്റർ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഇൻഹിബിഷനെ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ എന്നു പറയുന്നു ഇൻഹിബിറ്റർ ഈ സാഹചര്യത്തിൽ പ്രതിപ്രവർത്തനത്തെ ഇന്ഹിബിറ്റ് ചെയുന്ന ഒന്നാണ് ഇൻഹിബിറ്റർ ഇത് എൻസൈമിനെ ബന്ധിപ്പിച്ച് പ്രതിപ്രവർത്തനം തടയുകയും അതുവഴി മത്സരം നൽകുകയും ചെയ്യുന്നു ഇത് കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ എന്ന് വിളിക്കപ്പെടുന്നു അതുവഴി എൻസൈമിനെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയിൽ ആണ് സബ്സ്ട്രേറ്റ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്കീം റിയാക്ഷൻ സ്കീം ഇതുപോലെയാണ് സബ്സ്ട്രേറ്റ് പ്ലസ് എൻസൈം പരസ്പരം ബൈന്റ് ചെയ്തു നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നൽകുന്നു ഇതാണ് റിവേർസിബിൾ റിയാക്ഷൻ k 1 ഫോർവേഡ് റേറ്റ് k 2 റിവേഴ്സ് റിയാക്ഷൻ റേറ്റും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സും എൻസൈമും ഉൽപ്പന്നവും നൽകുന്നു മൈക്കിളിസ് മെന്റൻ എൻസൈം ആണ് കയ്നെറ്റിക്സ് ലളിതമായ എൻസൈം ഇവിടെ കൂടാതെ നമുക്ക് എൻസൈമുമായി ഇടപഴകുന്ന ഒരു ഇൻഹിബിറ്റർ തന്മാത്രയുണ്ട് അതേ സമയം വിപരീതമായി ഒരു എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് നൽകുന്നു ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ സ്കീം നമ്മൾ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇത് പരീക്ഷിച്ചു നോക്കുക ഇത് വളരെയധികം സമയമെടുക്കും അതിനാൽ ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല ഡെറിവേഷൻ മൈക്കിളിസ് മെന്റൻ കയ്നെറ്റിക്സ്ന്റെ അതെപോലെ ആണ് അതിനെക്കാൾ അല്പം സങ്കീർണ്ണമായിരിക്കും കാരണം ഒരു റിയാക്ഷൻ കൂടി നടക്കുന്നു കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കുക ആണെകിൽ നമ്മൾ കുറച്ച് സമയമെടുക്കും കുറച്ച് പേജുകളും മറ്റും നമുക്ക് ഇതിൽ v ലഭിക്കും ഇത് ഒരു ബാച്ച് സിസ്റ്റമാണ് അതിനാൽ റേറ്റ് വോള്യൂമെട്രിക് റേറ്റ് ഉൽപ്പന്നത്തിന്റെ അക്യുമുലെഷൻ റേറ്റ് ആയി കണക്കാക്കാം ഇനിപ്പറയുന്നവ നൽകാം ഇവിടെ I എന്നത് ഇൻഹിബിറ്റർ കോൺസെൻട്രേഷൻ ആണ് ഇത് ഈ രൂപത്തിലായി ക്രമീകരിച്ചിരിക്കുന്നു നമ്മുടെ മൈക്കിളിസ് മെന്റനെ ഓർക്കുക vvmSKmS ഇവിടെ K m പരിഷ്ക്കരിച്ചു Km 1 I Ki എന്നാക്കി അതിനാൽ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷന്റെ കാര്യത്തിൽ Km പരിഷ്ക്കരിക്കപ്പെടുന്നു കോഴ്സിന്റെ മെക്കാനിസം ഇൻഹിബിറ്റർ എൻസൈമുമായി ബന്ധിപ്പിക്കുന്നു അങ്ങനെയാണ് എൻസൈമിനുള്ള സബ്സ്ട്രേറ്റായി പ്രവർത്തിക്കുന്നത് അതുവഴി പ്രതിപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു റേറ്റ് എക്സ്പ്രഷന്റെ കാര്യത്തിൽ വ്യതിയാനം km ഇൽ മാത്രമേയുള്ളൂ vm വ്യത്യാസവുമിലാതെ ഇരിക്കുന്നു ഇവിടെയുള്ള KI k6 അല്ലാതെ മറ്റൊന്നുമല്ല റിവേഴ്സ് റിയാക്ഷൻ ഹരിക്കണം k 5 ന്റെ ഫോർവേർഡ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റന്റ് റിവേഴ്സ് റിയാക്ഷൻ കോൺസ്റ്റന്റിനെ ഫോർവേഡ് റിയാക്ഷൻ നിരക്ക് കോൺസ്റ്റന്റ് കൊണ്ട് ഹരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ vm അതേപടി നിലനിൽക്കുന്നു അതിനാൽ Km മാറുന്നു അതിനാൽ നമ്മൾ ലൈൻവീവർ ബർക്ക് പ്ലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്ലോപ്പിൽ നിന്നും കൂടിച്ചേരലിൽ നിന്നും വേണ്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കും അത് മനസിലാക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും വാസ്തവത്തിൽ നമുക്ക് ഒരു പ്രശ്നം പരിഹരിക്കാം അതുവഴി നമുക്ക് അത് മനസിലാക്കാൻ കഴിയും മുൻപത്തെ ഇൻഹിബിഷൻ കോംപ്റ്റിറ്റിവ് ആയിരുന്നു അടുത്ത തരം ഇൻഹിബിഷൻ പറയുന്നത് നോൺ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ ഇൻഹിബിറ്റർ എൻസയ്മ് ആയിട്ട് കൂടിചേരുന്നു അതു എൻസയ്മ് സബ്സ്ട്രേറ്റ് ആയിട്ടും ഈ സ്കീം ഇങ്ങനെയാണ് ഇതാണ് മൈക്കിളിസ് മെന്റൻ സ്കീം ആദ്യത്തെ റിയാക്ഷൻ S പ്ലസ് E റിവേഴ്സിബിലി E S നമുക്ക് ഇറിവേഴ്സിബിലി E പ്ലസ് P നൽകുന്നു എൻസൈം ഇൻഹിബിറ്ററുമായി ബന്ധിപ്പിച്ച് നമുക്ക് എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് നൽകുന്നു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സും ഇൻഹിബിറ്ററുമായി വിപരീതമായി ബന്ധിപ്പിച്ച് നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ കോംപ്ലക്സ് നൽകുന്നു അതിനാൽ നോൺ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷനുള്ള അധിക റിയാക്ഷൻ ഇതാണ് ഈ സാഹചര്യത്തിൽ ഇൻഹിബിറ്റർ എൻസൈമിനോടും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനോടും ബന്ധിപ്പിക്കുന്നു മൈക്കിളിസ് മെന്റൻ മെറ്റീരിയൽ ബാലൻസ് തുടങ്ങിയവയുടെ അതേ വരികളിലൂടെ നമുക്ക് ഒരു നീണ്ട പ്രക്രിയയിലൂടെ കടന്നുപോകാൻ കഴിയും നമ്മൾ അത് ശരിയായി ചെയ്താൽ നമുക്ക് ഒരു ബാച്ച് കേസിന് സമയമായി v ലഭിക്കും V m പരിഷ്ക്കരിച്ചു നോൺ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷന്റെ കാര്യത്തിൽ Km മാറുന്നില്ല Vm മാറുന്നു Km അതേപടി തുടരുന്നു നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഇൻഹിബിഷൻ നോക്കും തുടർന്ന് നമ്മൾ പ്രോബ്ലം നോക്കും മറ്റ് കയ്നെറ്റിക്സ്ന്റെ ഈ പ്രഭാഷണത്തിന് ഇത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു ഒരു ഹ്രസ്വ പ്രഭാഷണം മൂന്നാമത്തേത് അൺകോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ ആദ്യത്തേത് കോംപ്റ്റിറ്റിവ് പിന്നീട് നോൺ കോംപ്റ്റിറ്റിവ് പിന്നെ അൺകോംപ്റ്റിറ്റിവ് അൺകോംപ്റ്റിറ്റിവ് ഇൻഹിബിഷനിൽ ഇൻഹിബിറ്റർ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായി മാത്രം ബൈൻഡ് ചെയ്തിരിക്കുന്നു ഇത് എൻസൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇൻഹിബിറ്റർ എൻസൈമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു കോംപ്റ്റിറ്റിവ് എൻസൈമിനോടും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു അൺകോംപ്റ്റിറ്റിവ് ഇൻഹിബിഷന്റെ കാര്യത്തിൽ ഇത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായി മാത്രം ബന്ധിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപ്രവർത്തന സംവിധാനം മൈക്കിളിസ് മെന്റൻ പ്ലസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പ്ലസ് I ആണ് ഇത് നമുക്ക് വിപരീതമായി എൻസൈം സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്റർ കോംപ്ലക്സ് നൽകുന്നു ഇതിന്റെ വ്യുൽപ്പന്നം തരുന്നത് ഇവിടെ കാണാനാകുന്നതുപോലെ അൺകോംപ്റ്റിറ്റിവ് ഇൻഹിബിഷനു ആയി vm K m എന്നിവ മാറ്റം വരുത്തി അതിനാൽ ഈ കോഴ്സിൽ നമ്മൾ നോക്കുന്ന മറ്റ് മൂന്ന് കയ്നെറ്റിക്സ് ആണ് ഇവ ഇത്തരത്തിലുള്ള കയ്നെറ്റിക്സ് നന്നായി മനസിലാക്കാൻ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം തീർച്ചയായും മറ്റ് തരത്തിലുള്ള കയ്നെറ്റിക്സ് ഉണ്ട് എന്നാൽ ഈ കോഴ്സിൽ നമ്മൾ അത് നോക്കില്ല നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാം എൻസൈമുകളാണ് കൂടുതലും പ്രോട്ടീനുകൾ എന്ന് പറയട്ടെ മറ്റ് എൻസൈമുകളിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കണ്ട കൂടുതലും പ്രോട്ടീൻ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രോട്ടീൻ എങ്ങനെ ഫോൾഡു ചെയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവയുടെ പ്രവർത്തനം നമ്മുടെ അടിസ്ഥാന ബയോളജി കോഴ്സിൽ നിന്ന് നമുക്കെല്ലാവര്കും ഇത് അറിയാം അതിനാൽ ഫോൾഡ് അനുചിതമാണെങ്കിൽ അല്ലെങ്കിൽ ചില മാർഗ്ഗങ്ങളാൽ അത് മാറികൊണ്ടിരിക്കുകയാണെകിൽ എൻസൈം നിഷ്ക്രിയമാകും സജീവ സൈറ്റുകൾ മാറുകയാണെങ്കിൽ എൻസൈമുകൾ നിർജ്ജീവമാകും അത് ഒഴിവാക്കുന്നതിനും എൻസൈം വീണ്ടും ഉപയോഗിക്കുന്നതിനും ആളുകൾ എൻസൈമിനെ നിശ്ചലമാക്കി അവർ എൻസൈമിന്റെ പ്രവർത്തനത്തിന് നിർണായകമല്ലാത്ത ഭാഗങ്ങൾ എടുക്കുകയും അതായത് സജീവമല്ലാത്ത സൈറ്റുകൾ എടുക്കുകയും പിന്നീട് ചില മെട്രിക്സുകളിൽ നങ്കൂരമിടുകയും ചെയ്യുന്നു ഇത് ഒരു മുത്ത് അല്ലെങ്കിൽ ജെൽ അല്ലെങ്കിൽ ഒരു കിടക്ക പോലെയുള്ള ഒരു പോറസ് മാട്രിക്സ് ആകാം നമ്മൾ ഈ മട്രിക്സ് ബയോ റിയാക്ടറിൽ ഉപയോഗിക്കുന്നു എൻസയ്മ് റീയാക്ഷനു വേണ്ടി മുത്തുകളും ജെല്ലുകളും ഇത് രണ്ടും കാണാൻ വളരെ എളുപ്പമാണ് നമുക്ക് അവയെ റിയാക്ടറിലേക്ക് ചേർക്കാൻ കഴിയും സ്റ്റിർഡ് എൻവിറോൺമെന്റ് സ്റ്റിർഡ് റിയാക്ടർ ആകാം എന്നിട്ട് ഈ സബ്സ്ട്രേറ്റ് മുത്തുകളിലേക്കോ ജെല്ലുകളിലേക്കോ കടക്കുന്നു അത് എൻസൈമുമായി ഇന്ററാക്ട് ചെയുന്നു ഉൽപ്പന്നം നിർമ്മിക്കപ്പെടുന്നു ഉൽപ്പന്നം പുറത്തുവരുന്നു അല്ലെങ്കിൽ അത് ഒരു കിടക്കയിൽ സംഭവിക്കാം അവിടെ നമുക്ക് ഈ മട്രിക്സിനൊപ്പം ഒരു കിടക്കയുണ്ട് സബ്സ്ട്രേറ്റ് സൊല്യൂഷൻ കിടക്കയിലൂടെ കടന്നുപോകുന്നു കിടക്കയുടെ അവസാനത്തിൽ അത് പുറത്തുവരുമ്പോൾ അതിൽ പരിവർത്തനം നടത്തുന്നു അതിനാൽ ഇത് എൻസൈം അസ്ഥിരീകരണത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇത് കുറച്ച് ഉൽപ്പന്നങ്ങൾക്കായി വ്യവസായത്തിൽ വളരെയധികം ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഒരു വ്യാവസായിക പ്രക്രിയയാണ് ജെല്ലുകൾ നാനോ കണികകൾ ചെറിയ ഉപരിതലങ്ങൾ എന്നിവയിലും ഇവ അസ്ഥിരമാണ് ഈ എൻസൈമുകൾ ഉചിതമായി ചെയ്യുമ്പോൾ കീടനാശിനികൾ അല്ലെങ്കിൽ ഹെവി ലോഹങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും ഗ്ലൂക്കോസ് പോലുള്ള വിശകലനത്തിനും ബയോ സെൻസറുകളായി ആയി ഉപയോഗിക്കാം എൻസൈം അസ്ഥിരീകരണം ഒരുപക്ഷേ ഗ്ലൂക്കോസ് ഓക്സിഡേസ് അസ്ഥിരമാക്കിയ ഗ്ലൂക്കോസ് ഓക്സിഡേസ് ഗ്ലൂക്കോസ് സെൻസറായി ഉചിതമായ ഫോർമാറ്റിൽ ഉപയോഗിക്കാം സാധാരണ ചെയ്യുന്നതും അതാണ് അതിനാൽ ഉൽപാദന ആവശ്യങ്ങൾക്കായി മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാൻ കഴിയും എൻസൈം അസ്ഥിരീകരണത്തിന്റെ വ്യാവസായിക തോതിലുള്ള ഉപയോഗത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഫാർമ വ്യവസായത്തിൽ പെൻസിലിൻ അസൈലേസ് അസ്ഥിരമാക്കിയിരിക്കുന്നു പെൻസിലിൻ G യിൽ നിന്നുള്ള 6 APA ഉൽപാദനത്തിനായി അസ്ഥിരമാക്കിയ എൻസൈം ഉപയോഗിച്ചു 6 എപിഎയാണ് തിരഞ്ഞെടുത്ത ആൻറിബയോട്ടിക്കെന്നും പെൻസിലിൻ ജി 6 എപിഎയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഒരു എൻസൈം അസ്ഥിരമാക്കിയ റിയാക്ടറിലാണ് ഭക്ഷ്യ വ്യവസായം ഗ്ലൂക്കോസ് ഐസോമെറേസ് സ്വീറ്റ് ഇൻവെർട്ടട്ട് ഷുഗർ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും മിശ്രിതം ഇത് നിശ്ചലമാക്കിയ ഗ്ലൂക്കോസ് ഐസോമെറേസ് ഉപയോഗിച്ച് ആണ് ചെയുന്നത് ഊർജ്ജ വ്യവസായത്തിൽ ബയോ ഓയിൽ നിന്ന് ബയോ ഡീസൽ ഉൽപാദിപ്പിക്കുന്നത് നിശ്ചലമാക്കിയ എൻസൈം അസ്ഥിരമാക്കിയ ലിപേസ് എന്നിവ ഉപയോഗിച്ച് നടത്തുന്നു ഇതൊരു പേപ്പറാണ് ഇതു നിങ്ങളുടെ റഫറൻസുകളുടെ പട്ടിക അധിക സ്രോതസ്സുകളുടെ പട്ടിക നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം പൂർണ്ണ റഫറൻസ് ഇവിടെയുണ്ട് ഇത് ഖാനും അൽസോഹൈരിയും 2010 ൽ റിസർച്ച് ജേണൽ ഓഫ് ബയോളജിക്കൽ സയൻസസിൽ പ്രസിദ്ധീകരിച്ചു അസ്ഥിരീകരണ എൻസൈം സാങ്കേതികവിദ്യകളിലെ സമീപകാല മുന്നേറ്റങ്ങളും പ്രയോഗങ്ങളുമാണ് ശീർഷകം ഒരു അവലോകനം അതിനാൽ അസ്ഥിര എൻസൈമുകളെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആ പേപ്പർ വായിക്കുക എൻസൈമുകൾ മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട കോശങ്ങൾ അവ നിശ്ചലമാക്കാം കോശങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ധാരാളം ഷിയറുകളും മറ്റും ഉള്ള ഒരു ബയോ റിയാക്ടറിന്റെ കഠിനമായ അന്തരീക്ഷത്തെ മറികടക്കാൻ ഇത് സെല്ലുകളെ സഹായിക്കുന്നു നിരക്കുകളുടെയും മറ്റും കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ചില വശങ്ങളുണ്ട് പക്ഷേ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിശ്ചലമായ കോശങ്ങൾഅല്ലെങ്കിൽ അസ്ഥിര എൻസൈമുകൾ എന്ന് പറയാം വ്യാവസായിക പ്രക്രിയകളിൽ ഈ അസ്ഥിരീകരണ കോശങ്ങൾ വളരെ അധികം പഠിക്കപ്പെടുന്നു ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതുപയോഗിച്ച് പ്രാക്ടീസ് പ്രോബ്ലം 2 2 നോക്കാം ഈ പ്രഭാഷണം നമ്മൾ ഇവിടെ പൂർത്തിയാക്കും ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറയും പ്രാക്ടീസ് പ്രശ്നം 2 2 ഇതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ഹ്രസ്വ പ്രഭാഷണത്തിന്റെ ദ്രുത റീക്യാപ്പ് മൈക്കിളിസ് മെന്റൻ കയ്നെറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായ എൻസൈമുകൾക്കായുള്ള ചലനാത്മക സംവിധാനങ്ങൾ നമ്മൾ പരിശോധിച്ചിരുന്നു പ്രത്യേകിച്ചും നമ്മൾ ഇൻഹിബിഷൻ കയ്നെറ്റിക്സിൽ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ മൂന്ന് തരത്തിലുള്ള ഇൻഹിബിഷൻ ചലനാത്മകത പരിശോധിച്ചു കോംപിറ്റിറ്റിവ് നോൺ കോംപിറ്റിറ്റിവ് പിന്നെ അൺ കോംപിറ്റിറ്റിവ് കോംപിറ്റിറ്റിവ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോൺ കോംപിറ്റിറ്റിവ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത് മെക്കാനിസത്തിന്റെ കാര്യത്തിൽ അൺ കോംപിറ്റിറ്റിവ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഒരു ഇൻഹിബിറ്റർ പ്രധാനമായും ബന്ധിപ്പിക്കുന്നതെന്താണ് തത്ഫലമായുണ്ടാകുന്ന ഭൌതിക സമവാക്യം ആദ്യത്തേതിൽ ഒന്ന് മാറ്റം വരുത്തി രണ്ടാമത്തെ കേസിൽ മറ്റൊന്ന് പരിഷ്ക്കരിച്ചു മൂന്നാമത്തെ കേസിൽ രണ്ടും പരിഷ്ക്കരിച്ചു അതിനാൽ ഇതൊക്കെയാണ് നമ്മൾ മനസിലാക്കിയത് വ്യവസായത്തിൽ അസ്ഥിര എൻസൈമുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കി അത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് പ്രോബ്ലം 2 2 നോക്കാം S ഒരു സബ്സ്ട്രേറ്റ് ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്നതിൽ ഒരു എൻസൈം സാധാരണയായി മൈക്കിളിസ് മെന്റൻ സ്വഭാവം കാണിക്കുന്നു P മുകളിൽ പറഞ്ഞ പരിവർത്തനത്തിനായുള്ള M M പാരാമീറ്ററുകൾ വ്യത്യസ്ത സാന്ദ്രതകളിലുള്ള മറ്റൊരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ കണക്കാക്കിയപ്പോൾ ഇത് ഇനിപ്പറയുന്ന ഡാറ്റ നൽകി ഇൻഹിബിഷൻ തരം ഇൻഹിബിഷൻ സ്ഥിരത എന്നിവ നിർണ്ണയിക്കുക ഇവിടെ മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ കണക്കിലെടുക്കുമ്പോൾ v max ഉം Km ഉം v max മിനിറ്റിന് മില്ലിമോളാർ km മില്ലിമോളാർ മില്ലിമോളറിലെ ഇൻഹിബിറ്റർ സങ്കോചം 0 0 5 1 5 10 എന്നിങ്ങനെ നൽകിയിരിക്കുന്നു വിവിധ ഇൻഹിബിറ്റർ സാന്ദ്രതകളിൽ ലഭിച്ച vm Km എന്നിങ്ങനെയുള്ള മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ തന്നിരിക്കുന്നു ഇൻഹിബിഷൻ തരവും k ഇൻഹിബിഷൻ സ്ഥിരാങ്കവും കണ്ടെത്തുക അത് ചെയ്യുക അടുത്ത പ്രഭാഷണത്തിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യും